എല്ലാവർക്കും നമസ്കാരം കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൌണ്ടിംഗ് എന്ന പുതിയ കോഴ്സിലേക്ക് സ്വാഗതം 10 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഈ ചെറിയ കോഴ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൌണ്ടിങ് എന്നതിന്റെ ചില പ്രധാനപ്പെട്ട ആശയപരമായ വശങ്ങളെക്കുറിച്ച് ആണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വിവിധതരം ചെലവുകളെ കുറിച്ചും കോസ്റ്റ് അക്കൌണ്ടിംഗ് ൻറെ വിവിധ രീതികളെക്കുറിച്ചും അതിന്റെ ഭാഗമായുള്ള മാനേജ്മെന്റ് അക്കൌണ്ടിംഗ് ൻറെ തന്ത്രങ്ങളെ കുറിച്ചും ആണ് മാർജിനൽ കോസ്റ്റിങ് അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ പോയിന്റ് അല്ലെങ്കിൽ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ബജറ്ററി കണ്ട്രോൾ തുടങ്ങിയവയാണ് കോസ്റ്റ് അക്കൌണ്ടിംഗ് തന്ത്രങ്ങളിൽ ഉൾപ്പെടുന്നവ കോസ്റ്റ് അനാലിസിസുമായും സ്റ്റാൻഡേർഡ് പോസ്റ്റിംഗ് അല്ലെങ്കിൽ ബഡ്ജറ്റ് കൺട്രോളും ആയി ബന്ധപ്പെട്ട പല കേസുകളും നമ്മൾ പരിഗണിക്കുന്നുണ്ട് കഴിയുന്നിടത്തോളം രീതികളും ആമുഖ ഭാഗങ്ങളും പരിഗണിക്കുന്നുണ്ട് എങ്കിലും അതിലെ ആശയപരമായ വശങ്ങളിലൂടെ മാത്രമേ നമ്മൾ കടന്നു പോകുന്നുള്ളൂ ഈ കോഴ്സ് ചെയ്യുന്നവർക്ക് വെറും 10 മണിക്കൂറിൽ കോസ്റ്റ് അക്കൌണ്ടിങ്ങനെയും മാനേജ്മെന്റ് അക്കൌണ്ടിങ്ങനെയും കുറിച്ച് ഏകദേശ ധാരണ ലഭിക്കാൻ ഈ കോഴ്സ് വളരെയധികം ഉപയോഗപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വരദരാജ് ഭപാത് ഐഐടി മുംബൈ അക്കൌണ്ടിംഗ് ആൻഡ് ഫിനാൻസ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് അധ്യാപകനാണ് ഞാൻ ഒരു റാങ്ക് ജേതാവായ ചാർട്ടേഡ് അക്കൌണ്ടന്റ്റും കോസ്റ്റ് അക്കൌണ്ടന്റ്റും ആണ് ഒപ്പം ഐഐടി ബോംബെയിൽനിന്ന് ഫിനാൻസിംഗിൽ പിഎച്ച്ഡിയും ചെയ്തിട്ടുണ്ട് എന്റെ പ്രധാന അധ്യാപന മേഖല ഫിനാൻഷ്യൽ കോസ്റ്റ് അക്കൌണ്ടിംഗ് കൂടാതെ ഇന്ത്യൻ എക്കണോമിക്സ് ആൻഡ് ഫിനാൻഷ്യൽ മോഡലുമാണ് എന്റെ ഗവേഷണ മേഖലയും അക്കൌണ്ടിംഗ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കോർപ്പറേറ്റ് ഫിനാൻസ് തുടങ്ങിയവയാണ് ഇതു കൂടാതെ മറ്റു പല പാഠ്യേതര വിഷയങ്ങളിലും ഞാൻ ഏർപ്പെടാറുണ്ട് പക്ഷേ അതിൽ വളരെ പ്രധാനപ്പെട്ടവ യോഗ ആത്മീയത അല്ലെങ്കിൽ സംസ്കൃതം ഭാരതീയ സംസ്കൃതി എബിവിപി തുടങ്ങിയവയാണ് നമ്മൾക്ക് കോസ്റ്റ് അക്കൌണ്ടിങ്ങിനെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് കടക്കാം തുടക്കത്തിൽ ഈ പി T നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് കോസ്റ്റ് അക്കൌണ്ടിങ് എന്നതിനെക്കുറിച്ചും കോസ്റ്റും അക്കൌണ്ടിങ്ങിന്റെ മറ്റു ശാഖകളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്നതിനെപ്പറ്റിയും പിന്നീട് എന്താണ് ചെലവ് എന്നും വിവിധതരം ചെലവ്കളെയും കുറിച്ചാണ് കോസ്റ്റ് അക്കൌണ്ടിങ്ന് പ്രധാനമായും മൂന്നു ശാഖകളുണ്ട് ധനകാര്യം ചെലവ് കൂടാതെ മാനേജ്മെന്റ് അക്കൌണ്ടിംഗ് നിങ്ങളിൽ ചിലർക്ക് ഫിനാൻഷ്യൽ അക്കൌണ്ടിങ്നെക്കുറിച്ച് അറിയാമായിരിക്കും ഫിനാൻഷ്യൽ അക്കൌണ്ടിങ്ന് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളുണ്ട് ആദ്യത്തേത് സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുക എന്നതാണ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് സംവിധാനത്തിൽ എല്ലാ സാമ്പത്തിക ഇടപാടുകളും എപ്പോൾ എങ്ങനെ നടക്കുന്നു എന്നത് രേഖപ്പെടുത്തുകയും പിന്നീടത് കണക്കുപുസ്തകത്തിൽ ക്രോഡീകരിച്ച് സാമ്പത്തിക പ്രസ്താവനകളുടെ രൂപത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നു ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് സംവിധാനം പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് പുറത്തുനിന്നുള്ളവരെയാണ് ഓഹരി ഉടമകളെയും തൊഴിലാളികളെയും സർക്കാരിനെയും ആണ് ഇത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അകത്തുനിന്നുള്ള ഉപഭോക്താക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും പ്രധാന ലക്ഷ്യം പുറത്തുനിന്നുള്ള ഉപഭോക്താക്കൾ തന്നെയാണ് ഇനി നമുക്ക് എന്താണ് കോസ്റ്റ് അക്കൌണ്ടിങ് എന്ന് നോക്കാം ഫിനാൻഷ്യൽ അകൌണ്ടിംഗിൽ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത് പോലെതന്നെ കോസ്റ്റ് അകൌണ്ടിംഗിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചെലവ് രേഖപ്പെടുത്തുക എന്നതാണ് ചിലപ്പോൾ മറ്റേതിനെന്റെ പകർപ്പാണ് ഇത് എന്ന് നിങ്ങൾക്ക് തോന്നാം എന്നാൽ അങ്ങനെയല്ല എന്തുകൊണ്ടെന്നാൽ കോസ്റ്റ് അകൌണ്ടിംഗിൽ ചെലവ് രേഖപ്പെടുത്തുന്നത് ഒരുപാട് വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഉദാഹരണത്തിന് ഒരു സംഘടനയുടെ ശമ്പള ബിൽ അഞ്ചുകോടിയാണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൌണ്ടിങ് മുഴുവൻ തുക അഞ്ചു കോടിയായി രേഖപ്പെടുത്തുന്നു എന്നാൽ കോസ്റ്റ് അകൌണ്ടിംഗിൽ ഓരോ തരം തൊഴിലാളികൾക്ക് എത്ര വേതനം നൽകി അവർ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മണിക്കൂറിൽ അല്ലെങ്കിൽ ദിവസവും ചെയ്യുന്നത് എത്ര രൂപ അതിന് അവർക്ക് വേദനം ലഭിച്ചു എന്നീ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്നു അതുകൊണ്ടുതന്നെയാണ് കോസ്റ്റ് അക്കൌണ്ടിങ് കൂടുതൽ സമഗ്രമായ രേഖപ്പെടുത്തൽ ആകുന്നത് അടുത്തത് ചെലവുകളുടെ വിശകലനമാണ് എല്ലാ ചെലവും ഇപ്പോൾ തകർച്ചയിലാണ് സാലറി കോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ വ്യവസായശാലയുമായി ബന്ധപ്പെട്ട സാലറി കോസ്റ്റ് എത്രത്തോളം മുഖ്യ പ്രവർത്തകനുമായും വിൽപ്പനയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു അധിക സമയം എത്രയാണ് പ്രോത്സാഹനമായി എന്തു നൽകും എന്നതൊക്കെയാണ് ചർച്ചചെയ്യുന്നത് തൊഴിലാളി ചെയ്യുന്ന പ്രവർത്തിയുടെ സ്വഭാവം എന്താണ് പ്രത്യക്ഷമായ ചെലവ് എത്രയാണ് അതുപോലെ പരോക്ഷമായ ചെലവ് എത്രയാണ് തുടങ്ങിയവയെ കുറിച്ചുള്ള വിശദമായ വിശകലനവും താരതമ്യവും കൂടാതെ ഫിനാൻഷ്യൽ അകൌണ്ടിംഗിൽ ഘടനാപരമായ ചില മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്നു എന്നാൽ യഥാർത്ഥം അല്ലാത്ത ഒരു മാറ്റങ്ങളും ഉണ്ടാകാൻ നിങ്ങൾക്ക് അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല പക്ഷേ കോസ്റ്റ് അകൌണ്ടിംഗിൽ നമ്മൾ മൂല്യനിർണയം നടത്തി അവ ഉപയോഗിച്ച് ബഡ്ജറ്റ് ഉണ്ടാക്കുകയും ഭാവിയിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു ഈ വിശകലനങ്ങളെ ആസ്പദമാക്കി ഉപയോക്താക്കളുടെ ആവശ്യാനുസരണം ചെലവിനെകുറിച്ചുള്ള പ്രസ്താവനകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇവിടെ ഉപയോക്താക്കൾ പുറത്തുള്ളവരാണ് അതുകൊണ്ടുതന്നെ മാനേജർ സൂപ്പർവൈസർ തലം മുതൽ മാനേജ്മെന്റ് സി ഡയറക്ടർമാരുടെ ബോർഡ് തുടങ്ങി ഒരു സംഘടനയുടെ തീരുമാനങ്ങളെടുക്കുന്ന ആൾക്കാർക്കിടയിൽ ഇത് രഹസ്യ സ്വഭാവമുള്ള ഒരു രേഖയായി നിലനിൽക്കും അതുകൊണ്ട് തന്നെ ചില പ്രസ്താവനകൾ ഒഴിവാക്കി കൊണ്ടായിരിക്കും ഈ രേഖ സാധാരണ പുറത്തുനിന്നുള്ളവരോട് പങ്കുവയ്ക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കോസ്റ്റ് അക്കൌണ്ടിങ്ങിന്റെ നിർവചനം ഇതിൽ രേഖപ്പെടുത്തൽ മൂല്യനിർണയം നിയന്ത്രണം അതുപോലെ ചെലവുകളുടെ രേഖപ്പെടുത്തൽ തുടങ്ങിയവ ഉൾപ്പെട്ടിരിക്കുന്നു കോസ്റ്റ് അക്കൌണ്ടിങ് എന്നത് രേഖപ്പെടുത്തുന്നതിൽ മാത്രം അവസാനിക്കുന്നില്ല ഇതിൽ ചെലവിനെ പരിശോധിക്കുകയും അതുപോലെ അതിനെ നിയന്ത്രണത്തിൽ നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ പ്രവർത്തനം രേഖപ്പെടുത്തലിലൂടെ ആരംഭിക്കുകയും അത് കണക്കുകൂട്ടിയ ശേഷം അവസാനം അതിന്റെ ചെലവിന്റെ മൂല്യനിർണയം തയ്യാറാക്കുകയും ചെയ്യുന്നു കോസ്റ്റ് അക്കൌണ്ടിംഗ് സിസ്റ്റത്തിന്റെ ലക്ഷ്യം ചെലവ് അറിയാനുള്ള മുതൽമുടക്ക് അറിയുക എന്നതാണ് എന്നാൽ ഇത് ഉൽപ്പന്നത്തിന്റെ വില അറിയാനുള്ള ആകെത്തുകയല്ല മറിച്ച് ഒരു ഉൽപ്പന്നത്തിന് നിർമ്മാണരീതി തരംതിരിവ് സ്ഥാപനത്തിന്റെ പ്രവർത്തനച്ചെലവ് പ്രവർത്തനം തുടങ്ങിയവയെക്കുറിച്ചും അറിയുന്നതിനായാണ് അതിനാൽ ഇത് ചെലവിന്റെ വിശദമായ സ്ഥിരീകരണമാണ് ഇപ്പോൾ ഈ വിശദമായ വിലയിരുത്തൽ മൂല്യനിർണ്ണയമാണ് ചെലവ് നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നത് അതിനാൽ ബഡ്ജറ്റുകൾക്കായി ചില മാനദണ്ഡങ്ങൾ സജ്ജീകരിച്ച് അവയുടെ യഥാർത്ഥമായത് മാനദണ്ഡങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നു കൂടാതെ യഥാർത്ഥ ചെലവ് അനുവദനീയമായതിലും കവിയുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നു ചെലവ് നിയന്ത്രണ രീതികളും ചെലവ് കുറയ്ക്കലും നടത്തുകയും ചെയ്യുന്നു വിലനിർണ്ണയ തീരുമാനങ്ങൾക്കായി തീരുമാനമെടുക്കുന്നതിൽ സഹായിക്കുന്നതിന് വിവിധതരം വിവരങ്ങൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ശാശ്വതമായ പ്രയോജനം നമ്മൾക്കുണ്ട് വിലയെക്കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ അറിയാമെങ്കിൽ ഉൽപ്പന്നമോ സേവനമോ ശരിയായി സ്ഥാപിക്കാൻ നമ്മൾക്ക് കഴിയും ഉപഭോക്താക്കൾ ചില അധിക കാര്യങ്ങൾ എത്തിച്ചു നൽകാൻ ആവശ്യപ്പെട്ടേക്കാം നമുക്ക് അത് നൽകേണ്ടിവരും അതുപോലെ ആ ഉൽപ്പന്നത്തിന് ഉറപ്പു നൽകുക തുടങ്ങി എല്ലാ വശങ്ങളും പരിഗണിച്ച് ആവണം ചെലവ് കണക്കു കൂട്ടുവാൻ അതിനാൽ ശരിയായ വിലനിർണ്ണയം നടത്തുക ലാഭം ആസൂത്രണം ചെയ്യുന്നത് പോലെയുള്ള മറ്റ് തീരുമാനങ്ങൾക്കും ഇത് ഉപയോഗപ്രദമാണ് എന്തുകൊണ്ടെന്നാൽ എത്ര യൂണിറ്റ് ഉത്പാദിപ്പിക്കണം അല്ലെങ്കിൽ ഏത് തലം വരെ അതിന്റെ സേവനം നീട്ടണം എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നിട്ട് ധനവിനിയോഗം കണക്കാക്കുകയും അതുപോലെ വിഭവങ്ങളുടെ ക്രമാനുസൃതമായ വിന്യാസം നടത്തുകയും ചെയ്യുന്നു അതുപോലെ കൃത്യവും വസ്തുനിഷ്ഠവുമായ വിവരങ്ങൾ ലഭിക്കുന്നത് വഴി വിവിധ മാനേജ്മെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായകമാകുന്നു ഇതാണ് കോസ്റ്റ് അക്കൌണ്ടിംഗ് സിസ്റ്റ്ത്തിന്റെ ലക്ഷ്യങ്ങൾ ഇതിന്റെ നേട്ടങ്ങൾ എന്തെന്നാൽ ചിലവ് വിശദമായി രേഖപ്പെടുത്തുന്നതിലൂടെ നഷ്ടവും കാര്യക്ഷമതയും തിരിച്ചറിയാൻ സഹായിക്കുകയും അതുവഴി ലാഭകരമല്ലാത്ത പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനും ഒപ്പം ചെലവ് ചുരുക്കുന്നതിനായി വിവിധ സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുവാനും കഴിയും അതുവഴി ഉപയോഗശൂന്യമായ ചിലവ് ഒഴിവാക്കുകയും അതിലൂടെ വിഭവങ്ങളുടെ കൃത്യമായ വിനിയോഗം നടത്താൻ കഴിയുകയും ചെയ്യുന്നു കൂടുതൽ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മെച്ചപ്പെട്ട വിവരങ്ങൾ സഹായിക്കുമെന്ന് നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത് കഴിഞ്ഞു അത് ലാഭ ആസൂത്രണമാകാം നിർമ്മിക്കണോ വാങ്ങിക്കണോ എന്നുള്ള തീരുമാനം എടുക്കാം ചെയ്യാം അതുകൂടാതെ ഉല്പന്നങ്ങളും സേവനങ്ങളും പുറമേ നിന്ന് ലഭ്യമാക്കാനും സഹായിക്കുന്നു കോസ്റ്റ് അക്കൌണ്ടിംഗ് സമ്പ്രദായം കാരണം ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാണ് എടുക്കുന്നത് മാനേജ്മെന്റ് അക്കൌണ്ടിംഗ് ഒരു വ്യത്യസ്ത ആശയമാണ് അവിടെ സാമ്പത്തികവും ചെലവ് വിവരങ്ങളും ഒരുമിച്ച് എടുക്കുകയും ഇത് പ്രധാനമായും ആന്തരിക ഉപയോക്താക്കളെ ലക്ഷ്യമിടുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതിനെ മാനേജ്മെന്റ് അക്കൌണ്ടിംഗ് എന്ന് വിളിക്കുന്നു കാരണം ഇത് പ്രധാനമായും ആന്തരിക ഉപയോക്താക്കൾക്കുള്ളതാണ് അതിനാൽ ഇവിടെ ഈ ചിത്രത്തിൽ നമ്മൾ മാനേജ്മെന്റും ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗും തമ്മിലുള്ള താരതമ്യം കാണുന്നു മാനേജ്മെന്റ് അക്കൌണ്ടിംഗിൽ മികച്ച നിയന്ത്രണത്തിനും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനുമായി വിവിധ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗിൽ സാമ്പത്തിക പ്രസ്താവനകൾ തയ്യാറാക്കുകയും ലക്ഷ്യം ബാഹ്യ പങ്കാളികളെ ശരിയാക്കുകയും ചെയ്യുന്നു ഈ പ്രത്യേക കോഴ്സിൽ നമ്മൾ ചെലവ് മാനേജ്മെന്റ് അക്കൌണ്ടിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു ചെലവിന്റെ നിർവചനം ഇതാണ് വ്യവസായങ്ങളിലും വ്യവസായങ്ങൾ ഒഴികെയുള്ള മറ്റു പ്രവർത്തനങ്ങളിലും ചിലവ് എന്നത് പ്രയത്നത്തിന്റെയോ മറ്റു വിഭവങ്ങളുടെയോ സമയത്തിന്റെയോ ഉൾപ്പെട്ടിരിക്കുന്ന അപകടസാധ്യതകളുടെയോ ഏതെങ്കിലും ചരക്കുകളുടെ സേവനത്തിനോ ഉൽപാദനത്തിനോ വിതരണത്തിനോ ഉള്ള അവസരങ്ങൾ തുടങ്ങിയവയുടെ ആകെയുള്ള മൂല്യനിർണ്ണയമാണ് അതിനാൽ നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തിനും ചില വിഭവങ്ങൾ ത്യജിക്കേണ്ടതുണ്ട് ഒന്നുകിൽ അവസരങ്ങൾ ഉപേക്ഷിക്കണം സാമഗ്രികൾക്കായി ചെലവഴിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സമയം നൽകണം അല്ലെങ്കിൽ നമ്മുടെ വിഭവങ്ങൾ നൽകണം ഇതെല്ലാം ചെലവിൽ ഉൾപ്പെടുത്തും അതിന് മുൻകൂട്ടി മൂല്യനിർണ്ണയം നൽകാനും ചെലവിന്റെ കണക്കുകൂട്ടലുകൾക്കായി ഇത് ചേർക്കാനും ശ്രമിക്കും സാധാരണയായി ഇങ്ങനെയാണ് വ്യവസായത്തിൽ ഉൽപ്പാദന പ്രവർത്തനങ്ങൾ നടത്തുന്നത് തുടർന്ന് നമ്മൾ വിതരണ ശൃംഖലയ്ക്കോ വിതരണത്തിനോ പോകുംഉൽപ്പന്നം ഉപഭോക്താവിലേക്ക് എത്തണം ഇപ്പോൾ ഈ ഘട്ടങ്ങളിലെല്ലാം ചെലവുകൾ വഹിക്കുന്നു അതിനനുസരിച്ച് ചെലവ് ഉൽപ്പാദനം വിപണനം വിതരണം അനുബന്ധ ഉപഭോക്തൃ സേവനം അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം നോക്കുന്നതിനുള്ള ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ടവ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ ഗവേഷണ വികസന ചെലവ് പോലുള്ള മറ്റ് ചിലവുകളും ഉണ്ടാകാം ഇത് ചെലവിന്റെ മറ്റൊരു നിർവചനമാണ് ഏതെങ്കിലും ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ കൈമാറ്റത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന വിഭവങ്ങളുടെ അളവ് എന്ന് ഇതിനെ നിർവചിക്കാം അതിനാൽ നമ്മൾ സാധനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക സാമഗ്രികൾ വാങ്ങാനായി വിതരണക്കാരന് നൽകുന്ന പണത്തെ സാമഗ്രികളുടെ ചെലവ് എന്നു പറയുന്നു നമ്മൾ ശമ്പളമോ അധികസമയമോ നൽകുമ്പോഴോ ജീവനക്കാരുടെ നേട്ടത്തിനായി ചെലവഴിക്കുമ്പോഴോ അത് തൊഴിൽ ചെലവായി അല്ലെങ്കിൽ ശമ്പളച്ചെലവ് അല്ലെങ്കിൽ മനുഷ്യവിഭവശേഷി ചെലവായി ഉൾപ്പെടുത്തും അതിനുശേഷം ഞങ്ങൾ വൈദ്യുതി പോലെയുള്ള വിവിധ സേവനങ്ങൾ വാങ്ങുന്നു അല്ലെങ്കിൽ ചെലവ് വരുന്ന നഷ്ട്ടോത്തരവാദം പോലെയുള്ളവയെല്ലാം ചെലവിന്റെ ഉദാഹരണങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂലധന ചെലവ് എന്നറിയപ്പെടുന്ന മറ്റ് തരത്തിലുള്ള ചെലവുകളും ഉണ്ട് ഇപ്പോൾ ഇത് യന്ത്രസാമഗ്രികൾ വാങ്ങുന്നതിനോ യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിനോ പോലെയുള്ള സ്ഥിര ആസ്തികൾക്ക് വേണ്ടി വരുന്ന ചിലവാണ് ഇപ്പോൾ ഈ ചെലവ് നമ്മൾക്ക് ദീർഘകാല ആനുകൂല്യങ്ങൾ നൽകാൻ പോകുന്നു ഇവ ആ കാലയളവിലെ മാത്രം ചെലവല്ല യന്ത്രസാമഗ്രിക്ക് 5 വർഷത്തെ ആയുസ്സ് ആണെങ്കിൽ 5 വർഷത്തേക്ക് നമുക്ക് ആനുകൂല്യം ലഭിക്കും അതിനാൽ ആ ആസ്തിയുടെ മൂല്യത്തകർച്ച 5 വർഷത്തേക്ക് ഈടാക്കും ആ മൂല്യത്തകർച്ച ദൈനംദിന ചെലവിൽ ഉൾപ്പെടുത്തും അതിനാൽ മൂലധന ചെലവ് മുഴുവനും ആ കാലയളവിലെ ചെലവായി കണക്കാക്കില്ല എന്നാൽ മൂല്യത്തകർച്ചയുടെയോ തവണകളുടെ രൂപത്തിലോ അതിന്റെ ശരിയായ അനുപാതം ചെലവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഭാഗം ചെലവ് വർഗ്ഗീകരണം ആണ് ഇപ്പോൾ ഇവ കോസ്റ്റ് അക്കൌണ്ടിംഗിലെ വ്യത്യസ്ത അധ്യായങ്ങൾ നമ്മോട് പറയും കാരണം ഇത് വർഗ്ഗീകരണത്തിന്റെ ലൈനുകളിലെ വിശദമായ വിശകലനമാണ് ഒരു പ്രത്യേക ഇനത്തിനോ ഒരു പ്രത്യേക ഉൽപ്പന്നത്തിനോ വേണ്ടിയുള്ള വിലയെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കാൻ നമുക്ക് പോകാം അതിനാൽ ആദ്യം നമ്മൾ വർഗ്ഗീകരിക്കുന്നത് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആദ്യം അത് ഏറ്റവും പരമ്പരാഗതമായ രീതികളിലൊന്നാണ് പിന്നീട് പ്രവർത്തനത്തിലൂടെയോ നേരിട്ടുള്ളതോ പരോക്ഷമായോ നിയന്ത്രണം അസ്ഥിരത പ്രസക്തി അങ്ങനെ പലതും ഇനി ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചെലവ് വർഗ്ഗീകരണമായ ആദ്യ വർഗ്ഗീകരണത്തിലേക്ക് പോകാം ചെലവിന്റെ പ്രധാന ഘടകങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട് ആദ്യത്തേത് സാമഗ്രികൾ പിന്നെ ജോലി ചെലവുകൾ എന്നിവയാണ് ഇനി സാമഗ്രികളുടെ ചെലവ് ഇത് ഏതെങ്കിലും മൂർത്തമായ പദാർത്ഥത്തിനോ വസ്തുവിനോ വേണ്ടി വരുന്ന ചിലവാണ് ഏറ്റവും നല്ല ഉദാഹരണം അസംസ്കൃത വസ്തുക്കളുടെ വാങ്ങൽ ആകാം അത് ഏതെങ്കിലും ഘടകങ്ങളുടെ വാങ്ങലും ആകാം സാമഗ്രികളുടെ വിലയിൽ ഉൾപ്പെടുന്ന മറ്റേതെങ്കിലും മൂർത്തമായ ഇനം നിങ്ങൾ വാങ്ങുന്നു എന്ന് കരുതുകയാണെങ്കിൽ അടുത്തത് ജീവനക്കാരുടെ ചെലവ് ശമ്പളം വേതനം ഉത്സവബത്ത നേട്ടങ്ങൾ വിരമിക്കൽ ആനുകൂല്യങ്ങൾ മറ്റേതെങ്കിലും പ്രോത്സാഹനങ്ങൾ അല്ലെങ്കിൽ ഇ എന്നിവ ഉൾപ്പെടുന്ന എല്ലാ മാനവ വിഭവശേഷിയുടെയും ചെലവാണിത് ഇതെല്ലാം തൊഴിൽ ചെലവിലോ ജീവനക്കാരുടെ ചെലവിലോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തേത് സേവനങ്ങളാണ് അതിനാൽ ഞങ്ങൾ ഏതെങ്കിലും ബാഹ്യ സേവനങ്ങൾ വാങ്ങുമ്പോൾ വൈദ്യുതി ജീവൻ രക്ഷ പദ്ധതികൾ പോലെയുള്ള ചെലവ് വാടക എന്നിവയെല്ലാം ചെലവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതും സേവനങ്ങളെ മുന്നോട്ടുകൊണ്ടു പോകുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു അതിനാൽ സാമഗ്രികളും അധ്വാനവും ഉൾപ്പെടുത്താത്തത് ചെലവിൽ ഉൾപ്പെടുത്തും ഇപ്പോൾ സാമഗ്രികൾ അധ്വാനം ചെലവ് എന്നിങ്ങനെ തരംതിരിക്കുന്നതിനുള്ള ഏറ്റവും പരമ്പരാഗത മാർഗമാണിത് പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിനോ ചെലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനോ കൂടുതൽ തരം വർഗ്ഗീകരണങ്ങളും ഉൾപ്പെട്ടിരുന്നു ഇത് പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിലേക്ക് നയിക്കുന്നു പ്രധാനപ്പെട്ട വ്യവസായ ധർമ്മങ്ങളെ അടിസ്ഥാനമാക്കി ചെലവും തരം തിരിച്ചിരിക്കുന്നു വ്യവസായ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ലഭിക്കുന്നത് ഉൽപ്പാദനമാകാം വിൽപ്പനയും വിതരണവുമാകാം ഭരണവും മറ്റും ആകാം അതനുസരിച്ച് ചെലവുകളും തരംതിരിച്ചിട്ടുണ്ട് അതിനാൽ നമുക്ക് ഉൽപാദനച്ചെലവ് ഉൽപാദനം നിയന്ത്രിക്കുന്ന ആൾക്കുള്ള ചിലവ് വിൽപ്പനച്ചെലവ് എന്നിവ മനസ്സിലാക്കാൻ കഴിയുന്നു ആർ ഡി RD എന്നിങ്ങനെയുള്ള മറ്റു പ്രവർത്തനങ്ങളും മനസ്സിലാക്കാം അതിനനുസരിച്ച് ചെലവ് തരംതിരിക്കും ഇപ്പോൾ ഈ വർഗ്ഗീകരണത്തിന്റെ പ്രയോജനം എന്താണ് കാരണം ഇപ്പോൾ ഇത് പ്രവർത്തനം അനുസരിച്ചാണ് ചെലവ് നന്നായി നിയന്ത്രിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു അതിനാൽ ഒരു അദ്ധ്വാനമോ ഉൽപ്പാദനത്തിനായുള്ള അധിക ചിലവുകളോ എന്തുതന്നെയായാലും അതിന്റെ ഉത്തരവാദിത്തം പ്രൊഡക്ഷൻ മാനേജറെ ഏൽപ്പിക്കാം ഉൽപ്പാദനത്തിന്റെ നിലവാരത്തിനനുസരിച്ച് നമുക്ക് ഒരു ലക്ഷ്യം സജ്ജീകരിക്കാം ഉൽപാദനം നിയന്ത്രിക്കുന്ന ആൾക്കുള്ള ചെലവിന് അഡ്മിൻ മാനേജരെ ഉത്തരവാദപ്പെടുത്താം കൂടാതെ ഓഫീസുമായി ബന്ധപ്പെട്ടതോ അതിന്റെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ടതോ ആയ ചിലവ് ചേർക്കുന്നത് തുടരാം ഇതാണ് പ്രവർത്തന ചെലവ് ഇത് മികച്ച നിയന്ത്രണത്തിന് നമ്മെ സഹായിക്കുന്നു എന്നാൽ ഓരോ ഘടകങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള വിലനിർണയം പ്രായോഗികമല്ല വർഗ്ഗീകരണത്തിന്റെ മറ്റൊരു രീതിയാണ് ഇത് മൂന്നാമത്തെ പ്രധാന പ്രവർത്തനം വിൽപ്പനയും വിതരണവുമാണ് വർഗ്ഗീകരണം നടത്തുന്നതു വഴി പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമം ആക്കേണ്ടതുണ്ടോ മികച്ച നിയന്ത്രണത്തിലേക്ക് പോകണമോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും ചെലവ് വർഗ്ഗീകരണത്തിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതു വഴി നമ്മുടെ ബലവും ദൌർബല്യവും മനസ്സിലാക്കാൻ കഴിയും അടുത്ത പ്രധാനപ്പെട്ട വർഗ്ഗീകരണം പ്രത്യക്ഷവും പരോക്ഷവുമായ ചെലവ് വർഗ്ഗീകരണം ആണ് നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ചെലവുകളാണ് നേരിട്ടുള്ള ചെലവ് അതിനാൽ വിവിധ ചെലവുകൾ ചെലവ് കേന്ദ്രങ്ങൾ അനുസരിച്ചോ ഉൽപ്പന്നങ്ങൾക്കനുസരിച്ചോ വിഭജിക്കാം ഒരു ചെലവ് കേന്ദ്രത്തിലേക്കുള്ള ചിലവ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നമുക്ക് അത് നേരിട്ടുള്ള ചിലവായി കണക്കാക്കാം ഉദാഹരണത്തിന് പഴങ്ങളുടെ ചാറ് ഉൽപാദനത്തിൽ പഴങ്ങളുടെ വില പഴച്ചാറുകൾ നിർമ്മിക്കുകയാണെങ്കിൽ പഴത്തിന്റെ രൂപത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങണമെന്ന് നമ്മൾക്കറിയാം നിങ്ങൾ മാമ്പഴച്ചാറു തയ്യാറാക്കുമ്പോൾ വാങ്ങുന്ന മാമ്പഴം മാമ്പഴച്ചാർ ഉൽപാദന സംഘത്തിൽ നിറയ്ക്കാൻ കഴിയുമോ എന്ന് നോക്കാം നമ്മൾ മറ്റേതെങ്കിലും ഉൽപ്പന്നത്തിൽ നിന്ന് കുറച്ച് പഴച്ചാറുണ്ടാക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് പേരയ്ക്ക എടുക്കാം ആ പ്രത്യേക സംഘത്തിലേക്ക് ആ വാങ്ങൽ തിരിച്ചറിയാൻ നമുക്ക് പോകാം അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്ന ചിലവ് നേരിട്ടുള്ള ചിലവായി മാറും ഇത് എളുപ്പത്തിൽ കണ്ടെത്താനോ തിരിച്ചറിയാനോ കഴിയും ഒരു ഉദാഹരണം ഇവിടെ നൽകിയിരിക്കുന്നത് നോക്കാം നിങ്ങൾ കമ്പ്യൂട്ടറുകളുടെ ഹാർഡ്വെയറിന്റെ വ്യവസായത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പി C അസംബ്ലിങ്ങ് ചെയ്യുകയാണെന്ന് കരുതുക ഹാർഡ് ഡിസ്ക് പി C നിർമ്മിക്കുന്നതിലേക്കായാണു ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഹാർഡ് ഡിസ്കിന്റെ വില അസംബ്ലിങ്ങ് ചെയ്തു കഴിഞ്ഞ പിസി ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനാകും അതിനാൽ നിങ്ങൾ ഇതിനെ നേരിട്ടുള്ള ചിലവ് എന്ന് വിളിക്കുന്നു ഇതിന് വിപരീതമായി പ്രകൃതിയിൽ സാധാരണമായ നിരവധി ചിലവുകൾ ഉണ്ട് അവ ഒരു നിർദ്ദിഷ്ട ഉൽപ്പന്നത്തിന് വേണ്ടിയുള്ളതല്ലായിരിക്കാം തുടർന്ന് അവയെ പരോക്ഷ ചെലവ് എന്ന് വിളിക്കുന്നു നമ്മൾ ഹാർഡ്വെയർ നിർമ്മിക്കുന്ന ഒരു ചെറിയ സംഘമാണെന്ന് കരുതാം നമ്മൾ പി സി യും മറ്റ് പല കാര്യങ്ങളും അസംബ്ലിങ്ങ് ചെയ്യുന്നു അതുപോലെ മറ്റു ചെറിയ ജോലികളും കേടുപാടുകൾ ശരിയാക്കുന്ന ജോലികളും ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ എന്ജിനീയര്മാരെയും സാങ്കേതിക ഉദ്യോഗസ്ഥരെയും ആണ് ഈ പ്രവർത്തനങ്ങൾക്കും മറ്റ് അറ്റകുറ്റപ്പണികൾക്കും പി C യുടെ സംയോജനത്തിനുമായും ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക വ്യക്തിക്ക് നൽകുന്ന ശമ്പളവും ആരുടെയെങ്കിലും പ്രത്യേക ഉൽപ്പന്നവുമായോ സേവന ജോലിയുമായോ അതിനുള്ള ബന്ധവും നമ്മൾക്ക് കൃത്യമായി അറിയില്ല കാരണം ഓഫീസിലും പണിശാലയിലും ഒരേസമയം വ്യത്യസ്ത ജോലികൾ ചെയ്യുന്നു അതിനാൽ ഹാർഡ് ഡിസ്കിന്റെ വില അറിയാൻ കഴിയുന്നത് പോലെ ശമ്പളച്ചെലവ് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല നിങ്ങൾക്ക് മനസിലാകുന്നുണ്ടോ അതിനാൽ ഒരു പ്രത്യേക പി C ഹാർഡ് ഡിസ്കിന്റെ വില നേരിട്ടുള്ള ചെലവാണ് അതേസമയം ശമ്പളച്ചെലവ് പരോക്ഷ ചെലവിന്റെ മികച്ച ഉദാഹരണമായി മാറുന്നു പരോക്ഷ ചെലവിന്റെ മറ്റേതെങ്കിലും ഉദാഹരണം നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ ഉദാഹരണത്തിന് വാടക നമ്മൾ നമ്മളുടെ കടയോ വ്യവസായശാലയോ വാടകയ്ക്ക് നൽകുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് അത് തിരിച്ചറിയാൻ കഴിയുമോ അത് സാധ്യമാകില്ല കാരണം വാടക എന്നത് മുഴുവൻ സംവിധാനത്തിനു വേണ്ടിയുള്ളതാണ് അതിൽ നമ്മൾ നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു നമ്മൾ സേവനവുമായി ബന്ധപ്പെട്ട ചില ജോലികളും ചെയ്യുന്നു അതിനാൽ വാടക ഒരു പരോക്ഷ ചെലവായി തുടരുന്നു മുമ്പ് നമ്മൾ പഴച്ചാറ് നിർമ്മാണത്തിന്റെ ഉദാഹരണമാണ് എടുത്തത് അതിനാൽ വാങ്ങുന്ന അസംസ്കൃത വസ്തുക്കൾ അഥവാ പഴങ്ങൾ പ്രത്യേക തരം ചാറ് നിർമ്മിക്കാനുള്ളതാണെന്ന് നമുക്കറിയാം അത് നേരിട്ടുള്ള ചിലവാണ് പരോക്ഷമായ എന്തെങ്കിലും ചെലവ് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ ഉദാഹരണത്തിന് നിങ്ങൾക്ക് നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഒരു സംഘമോ അല്ലെങ്കിൽ യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഒരു വ്യക്തിയോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള സേവനങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ വ്യത്യസ്ത യന്ത്രങ്ങൾ പരിപാലിക്കുമ്പോഴോ അതേ വ്യക്തിയെ ആണ് വിളിക്കുന്നത് അതിനാൽ ചാറ് നിർമ്മാണ സംഘത്തിലെ വ്യക്തിയുടെ കൃത്യമായ ശമ്പളം അറിയാൻ നമ്മൾക്ക് കഴിയില്ല അതിനാൽ ഇത് പരോക്ഷമായ ചിലവിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇനി നമുക്ക് നവീകരണ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന സംഘത്തെയും സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന സംഘത്തെയും കുറിച്ചുള്ള ഒരു ഉദാഹരണം നോക്കാം വ്യവസായശാലയ്ക്ക് പുറത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉണ്ട് വ്യവസായശാലക്കുള്ളിൽ 10 യൂണിറ്റുകൾ ഉണ്ടെന്ന് പറയാം 10 യൂണിറ്റുകൾക്കും സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഒന്നുതന്നെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ശമ്പളം ഏത് ഘടകത്തിൽ ഉൾപ്പെടുത്തിയാണ് നൽകുന്നതെന്ന് നമ്മൾക്ക് കൃത്യമായി അറിയില്ല അതിനാലാണ് ഇത് പരോക്ഷ ചെലവായി കണക്കാക്കുന്നത് സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങളിലും പ്രദർശിപ്പിക്കുന്ന സ്ഥലങ്ങളിലും അതേരീതിയിൽ സംരക്ഷണ ചെലവ് പരോക്ഷ ചെലവായി മാറുന്നു പരോക്ഷമായ ചിലവിന് മറ്റൊരു പേരുണ്ട് അത് കൂടുതൽ ജനപ്രിയമാണ് ഇത് അധിക ചിലവ് ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇപ്പോൾ ലോകത്ത് സാധാരണയായി അധിക ചിലവ് നേരിട്ട് ഈടാക്കാനോ നേരിട്ടുള്ള ചെലവ് പോലെ നേരിട്ട് ഈടാക്കാനോ കഴിയില്ല അതിനാൽ മണിക്കൂറിൽ പല തവണ നിരക്ക് കണക്കാക്കുന്നു അത്തരം അധിക ചിലവിന്റെ ആകെത്തുക ഞങ്ങൾ മണിക്കൂറുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു അറ്റകുറ്റപ്പണിയുടെ ഒരു ഉദാഹരണം ഇവിടെ ഉണ്ടെന്ന് കരുതുക ഞങ്ങൾക്ക് ഒരു അറ്റകുറ്റപ്പണിയും പിന്തുണാ ഗ്രൂപ്പും ഉണ്ടെങ്കിൽ അവരുടെ മൊത്തം ചെലവ് കണക്കാക്കുന്നത് അവർക്ക് ജോലിയുള്ള മണിക്കൂറുകളാൽ ഹരിച്ചാണ് അത് നമുക്ക് നിരക്ക് മണിക്കൂറിൽ നൽകും ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്തുന്ന വ്യക്തിയെ വിളിക്കുകയും 5 മണിക്കൂർ ജോലി ചെയ്യുകയും ഒരു മണിക്കൂറിന് 2000 എന്ന നിരക്കിൽ പ്രവർത്തന നിരക്ക് നൽകുകയും ചെയ്യുമ്പോൾ 5 ഗുണനം 2000 നമുക്ക് 10000 ഈടാക്കാൻ കഴിയും മനസ്സിലാകുന്നുണ്ടോ അതിനാൽ അധിക ചിലവ് ഒരു മണിക്കൂറിനുള്ള നിരക്ക് ഉപയോഗിച്ചാണ് ഈടാക്കുന്നത് ചിലപ്പോൾ സംയുക്ത ചിലവുകൾ അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളുടെ നിരക്കുകൾ കണക്കാക്കുന്നു അധിക ചിലവുകൾ കണക്കാക്കുന്നതിനുള്ള ചെറിയ നൂതന സാങ്കേതിക വിദ്യകളായ ആക്ടിവിറ്റി ചെലവ് പോലുള്ള ചില സാങ്കേതിക വിദ്യകളും ഉണ്ട് പിന്നീട് നമ്മൾ അതിലേക്ക് കടക്കും എന്നാൽ ഈ പ്രത്യേക വർഗ്ഗീകരണം നേരിട്ടും പരോക്ഷമായും മികച്ച ചെലവ് നിയന്ത്രിക്കുന്നതിന് വളരെ ഉപയോഗപ്രദമാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു പ്രത്യേക ഉൽപ്പന്നത്തിനോ പ്രത്യേക ചെലവ് കേന്ദ്രത്തിനോ വേണ്ടിയുള്ള ചെലവ് കണ്ടെത്തുന്നതിന് ഇത് നമ്മളെ സഹായിക്കുന്നു മികച്ച നിയന്ത്രണത്തിനും ഇത് നമ്മളെ സഹായിക്കുന്നു കാരണം ഈ ഉൽപ്പന്നത്തിന് നേരിട്ടുള്ള ചിലവാണെന്നും അതിൽ കൂടുതൽ ശ്രദ്ധ നൽകാനും ധനവിനിയോഗം അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പു വരുത്താനും ആ പ്രത്യേക ചെലവിന്റെ കൂടുതൽ അനുയോജ്യമായ നിയന്ത്രണം ഏർപ്പെടുത്താനും കഴിയുന്നു എന്നാൽ വർഗ്ഗീകരണത്തെക്കുറിച്ചുള്ള ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ തരത്തിലുള്ള വർഗ്ഗീകരണങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം